നമസ്കരം കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ നമ്മൾ CVP BEP എന്നിവ ചർച്ച ചെയ്തു കൂടാതെ റെലവന്റ് കോസ്ററ് സങ്ക് കോസ്റ്റ് എന്നിവയും ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യങ്ങളെകുറിച്ചും ചർച്ച ചെയ്തു ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം നമുക്ക് BEP കണക്കാക്കണം ഈ കേസ് വളരെ രസകരമായിരിക്കും കാരണം നമ്മൾ ഒരു പിക്നിക്കിന് പോകുന്നു അതിനാൽ ഒരു സ്കൂൾ പിക്നിക്കിന്റെ തുക നമുക്ക് നിര്ണയിക്കേണ്ടതുണ്ട് ദയവായി ഈ കേസ് സ്വയം വായിച്ച് അവബോധം ഉണ്ടാക്കുക റീഷി പ്രശാലയിൽ ആകെ 160 വിദ്യാർത്ഥികളുണ്ട് അവർ ഭീമശങ്കറിലേക്ക് ഒരു പിക്നിക്കിന് പോകാൻ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഭീമാശങ്കർ മഹാരാഷ്ട്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ വന്യജീവികളെ കാണാൻ കഴിയുന്ന വളരെ രസകരമായ ഒരു വന്യജീവി സങ്കേതം കൂടിയുണ്ട് വായിച്ചു വരുമ്പോൾ അവിടെ ഒരു റിസർവ് വനവും ചെലവ് വിശദാംശങ്ങളും സൂചിപ്പിച്ചിരിക്കുന്നതായി കാണാം ഇപ്പോൾ ചെലവിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഉത്തരം കണ്ടെത്തണം Q1 ഒരു വിദ്യാർത്ഥിക്ക് 500 ഈടാക്കാൻ സ്കൂൾ തീരുമാനിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് BEP എന്താണ് PV അനുപാതം രസകരമായ കാര്യം നിങ്ങൾക്ക് ഒന്നിലധികം ഉത്തരങ്ങൾ നൽകാം 4 കോളങ്ങൾ നൽകാം അതായത് BEP യ്ക്ക് 4 ഉത്തരങ്ങളും PVR ന് 4 ഉത്തരങ്ങളും വരെ നൽകാം പാർട്ട് സ്കൂൾ മുനിസിപ്പൽ സ്കൂളിൽ നിന്ന് കുറച്ച് വിദ്യാർത്ഥികളെ ഫീസിൽ ഇളവ് നൽകി എടുക്കാൻ തീരുമാനിച്ചു എന്നാൽ ഇൻക്രിമെന്റൽ ചെലവ് നികത്താൻ മാത്രം മതിയായ ഫീസ് അവരിൽ നിന്ന് ഈടാക്കും എന്നാൽ എന്തായിരിക്കും കൺസെഷൻ ഫീസ് ഇവിടെയും 4 സാധ്യമായ ഉത്തരങ്ങൾ ഉണ്ടാകാം പാർട്ട് സി വിദ്യാർത്ഥികളുടെ എസ്റിമേറ്റഡ് എണ്ണം അനുസരിച്ച് നിങ്ങൾ 4 കോളം നിർമ്മിക്കേണ്ടതുണ്ട് ഇപ്പോൾ 500 രൂപ ഈടാക്കുന്നതിന് പകരം ചെലവ് നികത്താൻ മതിയായ ഫീസ് ഈടാക്കാൻ സ്കൂൾ തീരുമാനിച്ചിരിക്കുന്നു അതിനാൽ കേസ് പ്രകാരം കുറഞ്ഞ ഫീസ് നിര്ണയിക്കേണ്ട 1 2 3 4 കാറ്റഗറി ഇവിടെ മൂന്ന് കണക്കുകൂട്ടലുകൾ ആവശ്യമാണ് ദയവായി കേസ് വീണ്ടും പരിശോധിക്കുക തുടർന്ന് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ചർച്ച ചെയ്യാം നിങ്ങൾ പിക്നിക് ആസ്വദിച്ചു എന്നാൽ ഒരു പിക്നിക്കിന് പോകുന്നതിന് നമ്മൾ ആദ്യം അതേക്കുറിച്ചു തീരുമാനിക്കേണ്ടതുണ്ട് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചെലവുകൾ എന്തൊക്കെയാണ് അതിനു നമ്മൾ ഈടാക്കാൻ പോകുന്ന വില എന്താണ് അതിനാൽ നമുക്ക് പ്രധാനപ്പെട്ട ഡാറ്റ ശേഖരിക്കാൻ ആരംഭിക്കാം മാർജിനൽ കോസ്ററ് അല്ലെങ്കിൽ CVP യിൽ അവയുടെ സ്വഭാവമനുസരിച്ച് ചെലവ് വേർതിരിക്കാമെന്ന് നമുക്കറിയാം അതിനാൽ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് സെമി വേരിയബിൾ കോസ്റ്റ് എന്നിവ ഉണ്ടെങ്കിൽ ദയവായി ലിസ്റ്റ് ചെയ്യുക ഇനി പറയുന്ന ചെലവുകളിൽ ക്ഷേത്രത്തിൽ ദാനച്ചെലവ് 3000 ആണ് അത് ഒരു നിശ്ചിത ഫിക്സഡ് ചെലവാണ് സമ്മാനങ്ങൾ നിശ്ചിത വിലയാണ് ബസ് വാടക ഒരു നിശ്ചിത ചിലവ് ആണ് എന്നാൽ ബസ് വാടക പെർമിറ്റ് എടുക്കാം ഒരു ബസ് വാടക പെർമിറ്റിന് എത്രയാണ് വില ഒരു ബസ്സിന് 700 എന്ന പ്രകാരമാണ് പ്രത്യേക പെർമിറ്റ് ഫീസ് എന്ന് തോന്നുന്നു അതിനാൽ ഇത് ഒരു നിശ്ചിത ചെലവായി എടുക്കില്ല അത് ഒരു സെമി വേരിയബിൾ ചെലവായി എടുക്കാം സെമി വേരിയബിൾ ചെലവ് എന്താണെന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യാം അദ്ധ്യാപകർക്കുള്ള അലവൻസ് എത്രയാണ് ഒരു അധ്യാപകന് 200 രൂപ നിരക്കിൽ 2 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ അധ്യാപകർക്ക് 200 രൂപ അതിനാൽ ഓരോ ബസിനും 400 രൂപ നിരക്ക് ബസിനുള്ള പ്രവേശന ഫീസ് ബസ് പെർമിറ്റ് ഫീസ് പിന്നെ വേരിയബിൾ കോസ്ററ് വേരിയബിൾ കോസ്ററ് 108 രൂപ ആണ് നിങ്ങൾക്ക് അത് ലഭിക്കുന്നുണ്ടോ ഞങ്ങൾ ഭക്ഷണച്ചെലവിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് 20 60 80 20 എന്നിങ്ങനെയാണ് ഒരു യൂണിറ്റിന് വേരിയബിൾ കോസ്റ്റ് 108 ആയും അദ്ധ്യാപകൻറെ വേരിയബിൾ കോസ്റ്റ് 128 ഉം ആണ് ഇപ്പോൾ ഈ 128 എന്നത് ഓരോ അധ്യാപകനും വേരിയബിൾ ആണെങ്കിലും ഇവിടെ കോസ്റ്റ് യൂണിറ്റ് വിദ്യാർത്ഥിയാണ് അതിനാൽ ഓരോ വിദ്യാർത്ഥിയുടെയും വേരിയബിൾ ചെലവ് 108 ആണ് അദ്ധ്യാപകൻറെ കോസ്ററ് യൂണിറ്റ് 128 ആണ് എന്നാൽ അദ്ധ്യാപകൻറെ വേരിയബിൾ ചെലവ് സെമി വേരിയബിൾ കോസ്റ്റായി കണക്കാക്കേണ്ടതുണ്ട് ഒരു ബസിൽ രണ്ട് അദ്ധ്യാപകരുണ്ട് ബസ് കോസ്ററ് എന്നത് ഒരു കോസ്ററ് നിർണയം ആണ് അത് രണ്ട് അദ്ധ്യാപകർക്കുള്ള അദ്ധ്യാപക അലവൻസ് പ്രവേശന ഫീസ് ഭക്ഷണം മറ്റ് വേരിയബിൾ ചെലവുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ചെലവ് കണക്കുകൂട്ടലാണ് 258 256 4700 എന്നത് ഒരു ബസ് വാടകയാണ് അതിനാൽ ഇത് ഒരു ബസിന് 5756 രൂപ ആയി മാറുന്നു ഫിക്സഡ് കോസ്ററ് 12000 ആണ് ഞാൻ എന്റർ ചെയ്ത ബസ് റെന്റ് പെർമിറ്റ് ഫിക്സഡ് കോസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല ഓരോ ബസിനും മാറുന്ന സെമി വേരിയബിൾ കോസ്റ്റിൽ ഇത് ഉൾപ്പെടുത്തും എന്നാൽ സ്റ്റുഡന്റിൽ ഉൾപ്പെടുത്തില്ല അതായത് നിങ്ങൾക്കിത് ഇപ്പോൾ മനസ്സിലായോ നമുക്ക് മൂന്ന് തരത്തിലുള്ള കോസ്ററ് ആണുള്ളത് അത് വിദ്യാർത്ഥികളോടൊപ്പം പൂർണ്ണമായും മാറിക്കൊണ്ടിരിക്കുന്നു അത് വേരിയബിൾ കോസ്ററ് അത് ബസിനൊപ്പം മാറുന്നു അതിനാൽ SVC സെമി വേരിയബിളും മൂന്നാമത്തേതും മാറുന്നില്ല അതാണ് ഫിക്സഡ് കോസ്ററ് ഇനി നമ്മോട് BEP യും മറ്റു കാര്യങ്ങളും കണക്കാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോകാം എന്നാൽ സി ഭാഗത്ത് വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് വ്യത്യസ്ത ചെലവുകൾ കണക്കാക്കാനും നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ അത് വ്യത്യസ്തമായി ചെയ്യുന്നതാണ് നല്ലത് അതിനാൽ നിങ്ങളുടെ നെറ്റ് ബുക്ക് തുറന്ന് 80 120 150 160 വിദ്യാർത്ഥികൾക്കായി കോളങ്ങൾ തയ്യാറാക്കുക അപ്പോൾ 80 വിദ്യാർത്ഥികൾക്ക് എത്ര ബസുകൾ വേണ്ടിവരും ഓരോ റേഞ്ചിനും അതുപോലെ 2 ബസുകൾ ഉണ്ടാകും വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് 2 3 3 4 എന്നിങ്ങനെ ബസുകളുടെ എണ്ണം ആകും ഇപ്പോൾ 80 വിദ്യാർത്ഥികൾക്ക് വേരിയബിൾ കോസ്ററ് എത്രയായിരിക്കും ഇപ്പോൾ ഓരോ വിദ്യാർത്ഥിക്കും ഓരോ വേരിയബിൾ കോസ്ററ് എഴുതുന്നതിൽ അർത്ഥമില്ല അടിസ്ഥാനപരമായി 80 വിദ്യാർത്ഥികൾക്കുള്ള മൊത്തം വേരിയബിൾ കോസ്ററ് കണക്കാക്കുന്നു അപ്പോൾ വേരിയബിൾ കോസ്ററ് യൂണിറ്റിന് 108 ആണെന്ന് അറിയാം അതിനാൽ 108 X 80 ആയിരിക്കും 80 വിദ്യാർത്ഥികൾക്ക് ഉള്ള വാരിയബിൾ കോസ്ററ് അത് 1680 രൂപ ആണ് ഇപ്പോൾ സെമി വേരിയബിൾ ചെലവ് എത്രയായിരിക്കും ഇത് ബസുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ 2 ബസുകൾ ഉണ്ട് ഒരു ബസിന്റെ നിരക്ക് 5756 ആണ് അതിനാൽ 80 വിദ്യാർത്ഥികൾക്കുള്ള മൊത്തം SVC 11512 രൂപ വരുന്നു അത് 2 ബസുകൾക്കുള്ളതാണ് മൊത്തം ഫിക്സഡ് കോസ്ററ് 12000 ആണ് അതിനാൽ 80 വിദ്യാർത്ഥികൾക്ക് മൊത്തം ചെലവ് 35152 ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാൽ ആവറേജ് കോസ്ററ് എന്താണ് അത് 80 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 80 കൊണ്ട് ഹരിച്ചാൽ 401 ആയി ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം 400 രൂപ ഇപ്പോൾ 80 120 150 160 എന്നീ എണ്ണം വിദ്യാർഥികൾക്കായി കണക്ക് കൂട്ടാൻ c പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട് അതിനാൽ ഈ നാലെണ്ണത്തിനും വേണ്ടി ഞങ്ങൾ ഇത് കണക്കാക്കാൻ ശ്രമിക്കും നമുക്ക് ഇത് 50 വിദ്യാർത്ഥികൾക്കായി കൂടി കണക്കാക്കാം ഇപ്പോൾ അതേ കണക്കുകൂട്ടൽ ദയവായി 120 വിദ്യാർത്ഥികൾക്കായി ഉണ്ടാക്കുക അപ്പോൾ എന്താണ് വിസി 12960 രൂപ ശരിയല്ലേ 108 X 120 അപ്പോൾ സെമി വേരിയബിൾ കോസ്റ്റ് എത്രയാണ് ഇപ്പോൾ 3 ബസുകൾക്കാണ് കണക്കാക്കേണ്ടത് അതിനാൽ ഇത് 17268 ആയി വരുന്നു ഫിക്സഡ് കോസ്ററ് മാറ്റമില്ല ഇത് 12000 ആണ് മൊത്തം ചെലവ് 42228 ആണ് ഇപ്പോൾ ശരാശരി ചെലവിൽ ഇടിവ് 351 9 ആണ് അതിനാൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർധിച്ചതിനാൽ ഏകദേശം 50 രൂപയുടെ കുറവുണ്ടായി ഇനി വിദ്യാർത്ഥികളുടെ എണ്ണം 150 ആയി ഉയർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഇപ്പോൾ ഒരു VC എത്രയാണ് 108 X 150 എന്ന നിരക്കിൽ ഇത് 16200 ആണ് സെമി വേരിയബിൾ നിരക്ക് ഇപ്പോൾ സമാനമായിരിക്കും കാരണം ഇപ്പോൾ മൂന്ന് ബസുകളാണുള്ളത് ഫിക്സഡ് കോസ്ററ് എല്ലായ്പ്പോഴും 12000 ൽ സ്ഥിരമായിരിക്കും മൊത്തം ചെലവ് ഇപ്പോൾ 45468 ആയിരിക്കും ശരാശരി ചെലവ് 303 ആയി കുറയുന്നു ഇതിനെ എക്കണോമി ഓഫ് സ്കെയിൽ എന്നും വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളുണ്ട് അതിനാൽ മൊത്തം ചെലവ് കുറയുന്നു ഇപ്പോൾ നിങ്ങൾ 160 വിദ്യാർത്ഥികൾ പോയാൽ മൊത്തം ചെലവ് ഇനിയും കുറയുമോ മൊത്തം ചെലവ് 80 ൽ നിന്ന് 120 ൽ നിന്ന് 150 ലേക്ക് കുറയുന്നത് ഇവിടെ കാണാം 160 ന് ഇത് ഇനിയും കുറയുമോ എക്കണോമിസ് ഓഫ് സ്കെയിൽ എല്ലായ്പ്പോഴും ശരിയല്ലാത്തതിനാൽ നമുക്കത് കണക്കാക്കാം തുടർന്ന് ചർച്ച ചെയ്യാം അതിനാൽ VC ഇപ്പോൾ 17280 ആണ് SVC ഉയരും കാരണം ഇപ്പോൾ 4 ബസുകൾ ഉണ്ട് ഫിക്സഡ് കോസ്ററ് കോൺസ്റ്റന്റാണ് ആകെ ചെലവ് ഇപ്പോൾ 52304 ആണ് ശരാശരി ചെലവ് ചെറുതായി ഉയർന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഇത് ഉയർന്നത് കാരണം SVC ഉയർന്നു സെമി വേരിയബിൾ കോസ്ററ് ഘട്ടമായി ഉയരുന്ന പ്രകൃതം ആണ് നമുക്ക് 1 ബസ് 2 ബസുകൾ 3 ബസുകൾ 4 ബസുകൾ എന്നിവയുണ്ട് എന്നാൽ അവസാന 10 വിദ്യാർത്ഥികൾക്ക് ഒരു ബസ് കൂടി എടുക്കണം അതിനാലാണ് ശരാശരി ചിലവ് വർദ്ധിച്ചത് സാധാരണഗതിയിൽ ആവറേജ് കോസ്ററ് കുറയുമെന്നത് ശരിയാണ് കാരണം യൂണിറ്റിന് വേരിയബിൾ കോസ്റ്റ് 108 ആണ് ഫിക്സഡ് കോസ്ററ് സ്ഥിരമായത് 12000 ആണ് ഇത് കൂടുതൽ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് വ്യാപിക്കുന്നു എന്നിരുന്നാലും സെമി വേരിയബിൾ ചെലവ് അദ്വിതീയമാണ് അതിന് ഒരു സ്റ്റെപ്പ് പ്രകൃതം ആണ് അതിനാൽ 500 108 വളരെ ഉയർന്ന സംഭാവനയാണ് യൂണിറ്റിന് 392 രൂപ ബ്രേക്ക്ഈവൻ പോയിന്റ് ആണ് അതിനാൽ ഓരോ യൂണിറ്റിനും സംഭാവന കണക്കാക്കുമ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്ററ് ഉപയോഗിക്കാം അപ്പോൾ ബ്രേക്ക്ഈവൻ പോയിന്റ് എത്രയാകും അത് 392 ൽ 12000 ആകുമോ നമുക്ക് പരിശോധിക്കാം അതിനാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പ്രയോഗിക്കേണ്ടി വരും അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കൂ കാരണം ഫിക്സഡ് കോസ്ററ് ഇവിടെ ഫിക്സഡ് ആയിരിക്കുകയില്ല സാധാരണഗതിയിൽ ഫിക്സഡ് കോസ്ററ് എന്നത് പ്രവർത്തന നിലവാരത്തിനനുസരിച്ച് മാറാത്ത ചിലവായി നിർവചിക്കപ്പെടുന്നുവെന്ന് നമുക്കറിയാം എന്നാൽ ഈ സാഹചര്യത്തിൽ സംഭവിക്കുന്നത് ബസ് സംബന്ധമായ ചിലവ് സെമി വേരിയബിൾ നേച്ചർ ആണ് അതിനാൽ അവയെ വേരിയബിൾ കോസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല അതിനാൽ അവ ഫിക്സഡ് കോസ്റ്റിൽ ഉൾപ്പെടുതത്തുന്നു അതിനാൽ ഇവിടെ 2 ബസുകളുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നിശ്ചിത വില 23512 ആയി മാറുന്നു അതായത് 12000 5756 x 2 അതായത് 2 ബസുകളുടെ വില 5756 x 2 11512 മാറുന്നു അപ്പോൾ 12000 11512 23512 80 വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ എണ്ണം ഒരു വസ്തുതയായി എടുക്കുമ്പോൾ 23512 ആണ് ഫിക്സഡ് കോസ്ററ് വിദ്യാർത്ഥികളുടെ എണ്ണം 50 കടക്കുമ്പോൾ ക്ഷമിക്കണം വിദ്യാർത്ഥികളുടെ എണ്ണം 100 കടക്കുമ്പോൾ നിങ്ങൾ 3 ബസുകളിൽ പോകണം ഫിക്സഡ് കോസ്റ്റ് 29268 ആയി മാറുന്നു നിങ്ങൾ 4 ബസുകളിൽ പോകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് 35024 ആയി മാറുന്നു സംഭാവന 392 രൂപ തന്നെ ആയി നിലനിൽക്കുന്നു അപ്പോൾ നമുക്ക് ഒന്നിലധികം ബ്രേക്ക് ഈവൻ പോയിൻറുകൾ ലഭിക്കും ഇപ്പോൾ ബ്രേക്ക്ഈവെൻ പോയിന്റുകൾ 59 74 89 ആയതിനാൽ 3 ബ്രേക്ക് ഇവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേവലം 50 വിദ്യാർത്ഥികളുമായി നമുക്ക് ഒരു ബ്രേക്ക് ഈവൻ കൂടി ലഭിക്കുമോ 50 വിദ്യാർത്ഥികൾ മാത്രമാണെങ്കിൽ ഒരു ബ്രേക്ക് ഈവൻ കൂടി കണക്കാക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ 50 വിദ്യാർത്ഥികളെ എടുക്കുകയാണെങ്കിൽ അതായത് 1 ബസ് മാത്രമുള്ള SVC 5756 രൂപ ആണ് മൊത്തം ചിലവ് 23000 ആണ് അതിനാൽ ശരാശരി ചെലവ് 463 രൂപ ആണ് പ്രോബ്ളത്തിൽ ചോദിച്ചില്ലെങ്കിലും ഈ അധിക കണക്കുകൂട്ടൽ നടത്തി കാരണം ഇവയ്ക്ക് BEP കണക്കാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ബസ് മാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ ഫിക്സഡ് കോസ്റ്റ് 17756 ഉം BEP 45 ഉം ആണ് അതിനാൽ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്ത് BEP കണക്കാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നാല് ഇതര ഉത്തരങ്ങൾ വരെ നൽകാം നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരങ്ങൾ ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ സാധ്യമായ ഉത്തരങ്ങൾ 45 59 74 89 എന്നിവയാണ് ഇവ നിങ്ങൾക് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു മുമ്പത്തെ പ്രശ്നങ്ങളിൽ ഒരിക്കലും ഒന്നിലധികം BEP കണക്കാക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ സെമി വേരിയബിൾ കോസ്റ്റ് ഉള്ളതിനാൽ നിങ്ങൾക്ക് 1 ൽ കൂടുതൽ BEP കൾ ഉള്ള ഒരു സാഹചര്യത്തെ സമീപിക്കേണ്ടി വരുമെന്ന് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കും കോസ്ററ് ഘടന ഒരു നേർരേഖയാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ നിശ്ചിത വിലയും ഒരു പിവി അനുപാതവും മാത്രമേ ലഭിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് ഒരു കോണ്ട്രിബൂഷൻ മാത്രമേയുള്ളൂ അപ്പോൾ ഒരു BEP മാത്രമേ ഉണ്ടാകൂ എന്നാൽ കോസ്ററ് ഘടന ഒരു കർവ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു സ്റ്റെപ് നേച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ BEP കൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തിന് ഉത്തരം നൽകുമ്പോൾ നിങ്ങൾക്ക് BEP യുടെ നാല് ഉത്തരങ്ങൾ നൽകേണ്ടിവരുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് 4 PV അനുപാതങ്ങൾ എന്നത് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുമോ PV അനുപാതം എന്നാൽ വിൽക്കുന്ന വിലയിലെ കോണ്ട്രിബൂഷൻ എന്നതാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഓരോ സാഹചര്യത്തിനും PV അനുപാതം കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ PVR എന്താണ് PV അനുപാതം എന്നത് ആദ്യ സന്ദർഭത്തിൽ 0 7840 ആയി മാറുന്നു എന്നത് നമ്മൾ കണ്ടു അതായത് 500 ൽ 5 392 ഇവിടെ ബസുകളുടെ എണ്ണം 2 3 4 ആണെങ്കിൽ എന്ത് സംഭവിക്കും മറ്റ് PVR കൾ എന്തായിരിക്കും അവ മാറുമോ യഥാർഥത്തിൽ മാറില്ല കാരണം ഫിക്സഡ് കോസ്റ്റുകളുമായോ സെമി വേരിയബിൾ കോസ്റ്റുമായോ PVR ന് യാതൊരു ബന്ധവുമില്ലാത്തതിനാൽ ഇത് കോണ്ട്രിബൂഷനും വിൽപ്പനയും തമ്മിലുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് മറ്റ് PVR കൾ എന്തായിരിക്കുമെന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനാണ് അവ ഇവിടെ ആവശ്യപ്പെടുന്നത് വിദ്യാർത്ഥികൾ ചിലപ്പോൾ ബുദ്ധിമാന്മാരായിരിക്കും അവർ മിക്കവാറും പ്രോബ്ളത്തിൽ ചോദിക്കുന്നതിനാൽ രണ്ട് മൂന്ന് നാല് PVR കളുമായി വന്നിട്ടുണ്ടായിരിക്കും യഥാർത്ഥത്തിൽ രണ്ടാം ഭാഗത്തിനുള്ള ഉത്തരം PVR 1 മാത്രമാണ് അതായത് 0 7480 ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി നമുക്ക് ബി ഭാഗത്തേക്ക് പോകാം ഇപ്പോൾ ബി ഭാഗത്ത് ചില മുനിസിപ്പൽ സ്കൂൾ വിദ്യാർത്ഥികളെ സഹായിക്കാൻ സ്കൂൾ ആഗ്രഹിക്കുന്നുവെന്നും 500 രൂപ താങ്ങാൻ കഴിയാത്തതിനാൽ അവരെ ഞങ്ങളുടെ സാധാരണ വിദ്യാർത്ഥികളോടൊപ്പം ഒരു ഇളവ് ഫീസിൽ കൊണ്ടുപോകുമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് വർദ്ധിച്ചുവരുന്ന ചിലവുകൾ നികത്താൻ ആവശ്യമായ തുക അവരിൽ നിന്ന് ഈടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതേ സമയം അവരിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവർക്ക് സബ്സിഡി നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ അവരുടെ ചെലവ് എത്രയായാലും വീണ്ടെടുക്കും അപ്പോൾ 1 2 3 4 സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഇളവ് ഫീസ് എത്രയായിരിക്കും യഥാർത്ഥത്തിൽ കൺസഷൻ ഫീസ് വെറും 108 ആയിരിക്കും കാരണം ഓരോ വിദ്യാർത്ഥിക്കും വേരിയബിൾ കോസ്റ്റ് 108 ആണെന്ന് നമുക്കറിയാം അവരുടെ വേരിയബിൾ കോസ്റ്റ് 108 രൂപ അവരിൽ നിന്നു എടുക്കേണ്ടതുണ്ട് 3 ബസ് 4 ബസ് ഒരു വ്യത്യാസവും വരുത്തുന്നില്ല കാരണം അവയിൽ നിന്ന് ബസിന്റെ വാടക കവർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു വ്യത്യാസം ഉള്ളത് ഒഴിവുള്ള സീറ്റുകൾ എന്തായാലും ആ സീറ്റിനു വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിച്ചേക്കാം ആ എണ്ണം വ്യത്യാസപ്പെടാം എന്നാൽ ഫീസ് മാറില്ല അതിനാൽ വീണ്ടും നാല് ഉത്തരങ്ങൾ ചോദിച്ചു നിങ്ങളെ കബളിപ്പിക്കാൻ മാത്രമാണ് കൺസഷൻ ഫീസ് എന്നതിന് ഒരേയൊരു ഉത്തരം ഇവിടെ 108 രൂപ ആണ് നിങ്ങൾക്ക് എന്നെ മനസിലാകുന്നുണ്ടോ സി ഭാഗത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ 500 രൂപ നൽകേണ്ടതില്ലെന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് ചില പരാതികൾ ഉണ്ടാകാം അതിനാൽ വിദ്യാർത്ഥികളിൽ നിന്ന് ലാഭം വാങ്ങാതെ ഫീസ് ഈടാക്കാനാണ് സ്കൂൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അവർ ചെലവിന് ഫീസ് വാങ്ങും അപ്പോൾ ഈ നാല് സാഹചര്യങ്ങളിലും കുറഞ്ഞ ഫീസ് എന്തായിരിക്കും അപ്പോൾ എന്താണ് ഉത്തരം നമ്മൾ ഇതിനകം ശരാശരി ചെലവ് കണക്കാക്കിയതായി ഞാൻ കരുതുന്നു ഇപ്പോൾ ലാഭമൊന്നും ഉണ്ടാകില്ല 4 സാധ്യമായ സാഹചര്യങ്ങളുണ്ട് 4 സാധ്യമായ ഫീസ് ഉണ്ട് അതിനാൽ 80 വിദ്യാർത്ഥികൾക്ക് 401 രൂപ 120 വിദ്യാർത്ഥികൾക്ക് 351 രൂപ തുടർന്ന് 303 326 എന്നിവ ലഭിച്ചു അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താണ് പഠിച്ചത് ബ്രേക്ക് ഈവെൻ പോയിന്റ് എങ്ങനെ കണക്കാക്കാമെന്ന് നിങ്ങൾക്ക് ഇതിനകം അറിയാമായിരുന്ന രണ്ട് മൂന്ന് അധിക കാര്യങ്ങളുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ ചെലവ് ഘടന രേഖീയമല്ലെങ്കിൽ ഒന്നിലധികം ബ്രേക്ക് ഈവൻ പോയിന്റുകൾ ഉണ്ടാകാമെന്ന് നമ്മൾ കണ്ടു എന്നാൽ എന്റെ ചില മുൻ സെഷനിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അനുമാനങ്ങൾ ഉദാരമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അനുമാനം ഒഴിവാക്കാം കോസ്ററ് ഘടന രേഖീയമായിരിക്കണം എന്ന അനുമാനം ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾ സെമി വേരിയബിൾ ചെലവ് അനുവദിച്ചു അതിനാലാണ് നിങ്ങൾക്ക് ഒന്നിലധികം ബിഇപികൾ ലഭിച്ചത് എന്നാൽ ഒന്നിലധികം PV അനുപാതം ഇല്ല വിൽക്കുന്ന വിലയും വേരിയബിൾ വിലയും മാറാത്തിടത്തോളം കാലം ഒരു PVR മാത്രമേ ഉണ്ടാകൂ സി ഭാഗം ലളിതമാണ് നമുക്ക് ശരാശരി ചെലവ് കണക്കാക്കേണ്ടതുണ്ട് ശരാശരി ചെലവ് സാധാരണയായി കുറയുന്നതായി നിങ്ങൾക്ക് കാണാം എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് വർദ്ധിക്കും 150 വിദ്യാർത്ഥികളുമായി താരതമ്യം ചെയ്തപ്പോൾ 160 വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചത് പോലെ വർദ്ധിക്കും അത് നിങ്ങൾക്ക് മനസിലായി എന്ന് കരുതുന്നു ഇതോടെ ഈ കേസ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു നമസ്തേ നന്ദി